നിങ്ങൾ എന്താണ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസാക്ഷന്റെ സ്റ്റേറ്റ് അത് പൂർത്തിയായിട്ടുണ്ടോ തുടങ്ങിയോ മുതലായവ ഒരു ട്രാൻസാക്ഷൻ സജീവമാകാം അതായത് ട്രാൻസാക്ഷൻ നടക്കുന്നു അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും നടപ്പിലാക്കുന്നു അപ്പോൾ പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്നു എന്താണ് പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റ് ട്രാൻസാക്ഷന്റെ അവസാന സ്റ്റേറ്റ്മെന്റ് വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഭാഗികമായി പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിലാണെന്ന് അവസ്ഥയിലാണെന്ന് പറയപ്പെടുന്നു എന്നാൽ ട്രാൻസാക്ഷൻ വിജയകരമായി പൂർത്തിയാക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടില്ല അവസാന സ്റ്റേറ്റ്മെന്റ് ചെയ്തു പക്ഷേ അത് ശരിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല അത് പാർഷ്യലി കമ്മിറ്റഡാണ് കമ്മിറ്റഡ് സ്റ്റേറ്റും ഉണ്ട് അതായത് പാർഷ്യലി കമ്മിറ്റഡായ ശേഷം ട്രാൻസാക്ഷൻ ചെയ്യേണ്ടതെല്ലാം പൂർത്തിയാക്കുകയും തുടർന്ന് വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു കമ്മിറ്റഡ് സ്റ്റേറ്റ് എന്നാൽ വിജയകരമായി പൂർത്തിയായി ഒരു പരാജയപ്പെട്ട സ്റ്റേറ്റുണ്ട് വൈദ്യുതി സിസ്റ്റം ക്രാഷ് സിസ്റ്റം എറർ തുടങ്ങിയ വ്യത്യസ്ത കാരണങ്ങളാൽ ട്രാൻസാക്ഷൻ പരാജയപ്പെട്ടു ഒരു ട്രാൻസാക്ഷൻ പരാജയപ്പെട്ടതിനുശേഷം അത് നിർത്തലാക്കുകയല്ലാതെ മറ്റ് മാർഗമില്ല നിർത്തലാക്കുക എന്നതിനർത്ഥം ഒരു ട്രാൻസാക്ഷൻ അത് ചെയ്ത എല്ലാ കാര്യങ്ങളും പഴയപടിയാക്കുകയും അത് ആരംഭിക്കുന്നതിന് മുമ്പുളള സംസ്ഥാനത്തേക്ക് സ്റ്റേറ്റിലേക്ക് തിരിച്ചുപോകുകയും വേണം പണം കൈമാറുന്ന ഒരു ട്രാൻസാക്ഷൻ അലസിപ്പോകുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ എ ബി എന്നിവയിൽ ഉണ്ടായ ഒറിജിനലിലേക്ക് തിരിച്ചുപോകണം അതാണ് അബോർട്ട് നമുക്ക് ഈ സ്റ്റേറ്റ് ഡയഗ്രം വരയ്ക്കാം ഒരു ട്രാൻസാക്ഷൻ സജീവമായി ആരംഭിക്കുന്നു അത് പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകാം അല്ലെങ്കിൽ അത് പരാജയപ്പെട്ടേക്കാം പാർഷ്യലി കമ്മിറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ട്രാൻസാക്ഷൻ കമ്മിറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകാം പക്ഷേ നിർഭാഗ്യവശാൽ അത് പരാജയപ്പെട്ട അവസ്ഥയിലേക്ക് പോകാനും കഴിയും സ്റ്റേറ്റിന്റെ അവസാന സ്റ്റേറ്റ്മെന്റ് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഇപ്പോഴും ചില പരാജയങ്ങൾ ഉണ്ടായേക്കാം എന്തുകൊണ്ടാണ് ഈ പരാജയങ്ങൾ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എഴുതേണ്ട ഒരു ലോഗ് ഉണ്ട് ഡാറ്റാബേസ് വഴി കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട് ആ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും സമയത്ത് അത് പരാജയപ്പെട്ടേക്കാം പരാജയപ്പെട്ട സ്റ്റേറ്റിൽ നിന്ന് അബോർട്ട് അല്ലാതെ മറ്റൊരു മാർഗമില്ല ട്രാൻസാക്ഷൻ സജീവമായി തുടങ്ങുമ്പോൾ അത് കമ്മിറ്റഡ് അല്ലെങ്കിൽ അബോർട്ടഡ് അവസ്ഥയിൽ അവസാനിക്കും വേറെ വഴിയില്ല ഒന്നുകിൽ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നു അത് വിജയകരമായി പൂർത്തിയാക്കുന്നു അല്ലെങ്കിൽ അത് നിർത്തലാക്കുന്നു ഇതിനർത്ഥം അത് എവിടെയോ പരാജയപ്പെട്ടു അത് മുമ്പ് ആരംഭിച്ച സ്റ്റേറ്റിലേക്ക് അത് തിരികെ പോകണം അതാണ് ഒരു ട്രാൻസാക്ഷന്റെ അവസ്ഥയെക്കുറിച്ചുള്ള കാര്യം അടുത്തതായി നമ്മൾ ട്രാൻസാക്ഷന്റെ ചില സ്കീമുകളും ട്രാൻസാക്ഷനുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് കാണുന്നു ആദ്യത്തേതിനെ ഷാഡോ ഡാറ്റാബേസ് സ്കീം എന്ന് വിളിക്കുന്നു നമുക്ക് ഈ പദം വിശദീകരിക്കാം ഇവയെല്ലാം റിക്കവറി മാനേജ്മെന്റിന്റെ ഭാഗമാണ് എന്തുകൊണ്ടാണ് ട്രാൻസാക്ഷൻ വീണ്ടെടുക്കേണ്ടത് ഒരു ട്രാൻസാക്ഷൻ നിർത്തലാക്കുമ്പോൾ അത് വീണ്ടെടുക്കേണ്ടതുണ്ട് അതായത് ഡാറ്റാബേസ് യഥാർത്ഥ അവസ്ഥയിലേക്ക് വീണ്ടെടുക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് A യുടെ പണം B യിൽ ക്രെഡിറ്റ് ചെയ്യാതെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ പരാജയപ്പെടുകയാണെങ്കിൽ A യിലേക്ക് അതേ തുക തിരികെ ക്രെഡിറ്റ് ചെയ്യണം റിക്കവറി എന്നത് ആറ്റോമിസിറ്റി ഉറപ്പാക്കുന്നു ഇത് ഡ്യൂറബിലിറ്റി നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നു റിക്കവറിക്ക് കുറച്ച് പങ്കുണ്ട് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഡ്യൂറബിലിറ്റി നൽക്കുന്നവ താഴെ പറയുന്നവയാണ് ചില കാരണങ്ങളാൽ B യുടെ അക്കൌണ്ട് ശരിയായ കാര്യം പ്രതിഫലിപ്പിച്ചിട്ടില്ലെങ്കിൽ B യുടെ അക്കൌണ്ട് ശരിയായ ബാലൻസ് പ്രതിഫലിപ്പിക്കുമെന്ന് റിക്കവറി സംവിധാനം ഉറപ്പാക്കും ആവശ്യമെങ്കിൽ ട്രാൻസാക്ഷൻ വീണ്ടും പ്രവർത്തിപ്പിക്കും A യുടെ പണം രണ്ടുതവണ ഡെബിറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇത് ഉറപ്പാക്കുന്നു ആ കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും റിക്കവറി മാനേജുമെന്റിലെ രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഇവ റിക്കവറി മാനേജുമെന്റ് പദ്ധതിയാണ് ഷാഡോ ഡാറ്റാബേസ് സ്കീം ഇതിനെ ഒരു വീണ്ടെടുക്കൽ മാനേജുമെന്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നു ഷാഡോ ഡാറ്റാബേസ് സ്കീം അതിലൊന്നാണ് ഷാഡോ ഡാറ്റാബേസ് സ്കീം എന്താണ് ചെയ്യുന്നത് ഡാറ്റാബേസിന്റെ ഒരു ഷാഡോ കോപ്പി പരിപാലിക്കുന്നതിലൂടെ അത് ആറ്റോമിസിറ്റി നടപ്പിലാക്കുന്നു എന്താണ് ഒരു ഷാഡോ കോപ്പി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഡാറ്റാബേസിന്റെ ഒരു പകർപ്പായ ഒരു കണ്ണാടി അല്ലെങ്കിൽ ഷാഡോ കോപ്പി ഉണ്ട് ഇതാണ് ആശയം ഇതൊരു ഡാറ്റാബേസ് ആണ് ഇത് നിർമ്മിക്കുന്ന ഷാഡോ കോപ്പിയാണ് ഇതാണ് ഷാഡോ കോപ്പി ഇതിനർത്ഥം മുഴുവൻ ഡാറ്റാബേസും ഈ വസ്തുവിന്റെ കൃത്യമായ പകർപ്പാണ് ഇപ്പോൾ ഈ ഡാറ്റാബേസിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു ഇതാണ് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷനിടെ ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നുവെന്ന് കരുതുക അപ്പോൾ രണ്ട് കേസുകളുണ്ട് എല്ലാം വിജയകരമാണെങ്കിൽ പുതിയ കാര്യത്തിനൊപ്പം ഷാഡോ കോപ്പി അപ്ഡേറ്റ് ചെയ്യപ്പെടും ഇതിനായി ഞാൻ മറ്റൊരു നിറം ഉപയോഗിക്കട്ടെ മറുവശത്ത് അത് പരാജയപ്പെടുകയാണെങ്കിൽ ഈ ഡാറ്റാബേസ് നീക്കംചെയ്യുകയും ഷാഡോ കോപ്പി ഇപ്പോൾ ശരിയായ ഡാറ്റാബേസായി എടുക്കുകയും ചെയ്യും കാരണം ഇവിടെയാണ് ട്രാൻസാക്ഷൻ ആരംഭിച്ചത് ട്രാൻസാക്ഷന്റെ അർത്ഥം പ്രവർത്തനങ്ങൾ ഡാറ്റാബേസിൽ നടക്കുന്നുണ്ട് അതിനാൽ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ അത് വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുന്നു അത് വിജയിച്ചാൽ അതിനർത്ഥം നിലവിലുള്ള ഡാറ്റാബേസ് പ്രവർത്തിക്കുന്ന പുതിയ ഡാറ്റാബേസ് ശരിയായ പകർപ്പാണ് അതുകൊണ്ട് ഷാഡോ കോപ്പി അപ്ഡേറ്റുചെയ്തു മറുവശത്ത് അത് പരാജയപ്പെടുകയാണെങ്കിൽ അതിനർത്ഥം അത് ആരംഭിച്ച ഷാഡോ കോപ്പി ശരിയായ പകർപ്പാണെന്നാണ് അതിനാൽ ഷാഡോ കോപ്പി യഥാർത്ഥ ഡാറ്റാബേസിലേക്ക് പകർത്തുന്നു ഇതാണ് ഷാഡോ ഡാറ്റാബേസ് സ്കീം നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇത് കാര്യക്ഷമമല്ല എന്തുകൊണ്ടാണ് ഇത് വളരെ കാര്യക്ഷമമല്ലാത്തത് കാരണം നിങ്ങൾ മുഴുവൻ ഡാറ്റാബേസും പകർത്തുന്നു ഓരോ തവണ ട്രാൻസാക്ഷൻ ആരംഭിക്കുമ്പോഴും അടിസ്ഥാനപരമായി അത് ചെയ്യുന്നില്ല ചില ഡാറ്റാബേസ് പോയിന്ററുകൾ മുതലായവയുണ്ട് എന്നാൽ ഇത് വളരെ കാര്യക്ഷമമല്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് അങ്ങേയറ്റം കാര്യക്ഷമമല്ല മറ്റ് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരേസമയം ഒന്നിലധികം ട്രാൻസാക്ഷനുകൾ നടക്കുമ്പോൾ അതിന് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നതാണ് റിക്കവറി മാനേജുമെന്റിനായുള്ള ഷാഡോ ഡാറ്റാബേസ് സ്കീമിന്റെ പ്രശ്നമാണിത് റിക്കവറി മാനേജുമെന്റ് ഉപയോഗിക്കുന്ന ഒരു പ്രധാന കാര്യം ലോഗ് എന്നാണ് ഇതിനെ ചിലപ്പോൾ ഒരു ഡാറ്റാബേസ് ജേർണൽ എന്നും വിളിക്കുന്നു ഇത് ഒരു ട്രാൻസാക്ഷൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ട്രാക്ക് സൂക്ഷിക്കുന്നു ഒരു ട്രാൻസാക്ഷനിലെ ഓരോ പ്രവർത്തനവും ലോഗിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ അതിന്റെ ഒരു കോപ്പി നിലനിർത്തുകയോ അല്ലെങ്കിൽ ലോഗുകളിൽ എഴുതുകയോ ചെയ്യും ട്രാൻസാക്ഷൻ 1 A എന്ന് വായിക്കുന്നു അത് ലോഗിൽ എഴുതിയിരിക്കുന്നു അപ്പോൾ ട്രാൻസാക്ഷൻ 1 B എന്ന് എഴുതുന്നു അതിനാൽ അതും ലോഗിൽ സൂക്ഷിക്കുന്നു ആരെങ്കിലും ലോഗ് വായിച്ചാൽ ഏത് ട്രാൻസാക്ഷൻ പ്രവർത്തിക്കുന്നുവെന്നും ഏത് ഡാറ്റ ഇനമാണെന്നും ഏത് ക്രമത്തിലാണെന്നും അവർക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയും ഇവയാണ് ലോഗിന്റെ ഉദ്ദേശ്യം ലോഗ് വളരെ പ്രധാനമാണ് അത് ഡിസ്കിൽ സൂക്ഷിക്കുന്നു ഒരു ലോഗ് നിലനിൽക്കുന്ന ആശയം എന്താണ് ലോഗ് വീണ്ടും വീണ്ടും വായിക്കാൻ കഴിയും അത് നിലനിൽക്കുന്നതിനാൽ എഴുതാം അത് ഒരു കാര്യമാണ് ആർക്കൈവൽ സംഭരണത്തിലേക്ക് ലോഗ് ഇടയ്ക്കിടെ ബാക്കപ്പ് ചെയ്യുന്നു അതിനാൽ ഇത് ശരിക്കും നിലനിൽക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ലോഗിലേക്കും ഏത് സ്ഥാനത്തേക്കും തിരികെ പോകാം അതാണ് ഈ സ്ഥിരമായ പ്രശ്നം കാരണം അത് ഡിസ്കിൽ എഴുതപ്പെടുന്നു T എന്നൊരു ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് കരുതുക തുടർന്ന് ലോഗിൽ കുറച്ച് കാര്യങ്ങൾ പരിപാലിക്കുന്നു ആദ്യത്തെ പ്രവർത്തനം സ്റ്റാർട്ട് ആണ് ട്രാൻസാക്ഷൻ ആരംഭിച്ച പ്രവർത്തനമാണിത് അങ്ങനെയാണ് സ്റ്റാർട്ട് ടി അത് പരിപാലിക്കപ്പെടുന്നു ഇത് പരിപാലിക്കുന്ന ഒരു പ്രവർത്തനമാണ് x എന്ന് പേരുള്ള ഇനം ട്രാൻസാക്ഷൻ T യ്ക്കുള്ള ഒരു എഴുത്ത് പ്രവർത്തനമാണ് എന്നാൽ പഴയ മൂല്യം ഇതാണ് പുതിയ മൂല്യം ഇതാണ് ഇതും ലോഗിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് എത്ര വിശദമാണെന്ന് നിങ്ങൾ കാണുന്നു ട്രാൻസാക്ഷൻ ടി x ന്റെ മൂല്യം എഴുതിയിട്ടുണ്ടെന്നും അത് പഴയ മൂല്യത്തെ പുതിയതായി മാറ്റിയെന്നും പറയുന്നു പിന്നെ റീഡ് എന്നും പറയുന്നു അതിനാൽ ട്രാൻസാക്ഷൻ ടി x ന്റെ മൂല്യം വായിച്ചു അത് വായിച്ചപ്പോൾ മൂല്യം val ആണ് പിന്നെ തീർച്ചയായും കമ്മിറ്റ് ടി കൂടാതെ അബോർട്ട് ടി ഉണ്ട് ട്രാൻസാക്ഷനിൽ ലോഗിൽ എഴുതുന്ന അഞ്ച് പ്രവർത്തനങ്ങളാണിവ ലോഗുകൾ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ വീണ്ടെടുക്കും ലോഗുകൾ ഉപയോഗിച്ചുള്ള റിക്കവറി ഇനിപ്പറയുന്ന രീതിയിൽ ചെയ്യുന്നു ലോഗുകൾ ഉപയോഗിച്ച് ഒരു റിക്കവറി സംവിധാനം നിർമ്മിക്കാൻ നമ്മൾ ശ്രമിക്കും രണ്ട് പ്രധാന പ്രവർത്തനങ്ങൾ ഉണ്ട് ആദ്യത്തെ പ്രവർത്തനത്തെ അൺണ്ടു എന്ന് വിളിക്കുന്നു എന്താണ് അണ്ടു എയുടെ അക്കൌണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക എങ്ങനെ പഴയപടിയാക്കും ലോഗ് പറയുന്നത് A വായിച്ചു എന്നാണ് ഇത് വായിച്ച മൂല്യം ആയിരുന്നു പിന്നെ ട്രാൻസാക്ഷൻ ടി A എഴുതി ഇത് പഴയ മൂല്യം ഇത് പുതിയ മൂല്യം മുതലായവയാണ് ആ കാര്യങ്ങളെല്ലാം ലോഗിൽ സൂക്ഷിക്കുന്നു തുടർന്ന് ലോഗ് പഴയപടിയാക്കാൻ അത് കാലക്രമത്തിൽ വിപരീതമായി സഞ്ചരിക്കാം ഇത് ഏറ്റവും പുതിയ സമയ പോയിന്റായിരുന്നു ഇത് നേരത്തെയുള്ള സമയ പോയിന്റായിരുന്നു ഇത് വിപരീത രീതിയിൽ വായിക്കാനാകും ഇതിൽ ഓരോന്നും പഴയപടിയാക്കാം അതിനാൽ പഴയ മൂല്യം തിരികെ എഴുതാം അൺണ്ടു ചെയ്യുന്നതിനുള്ള രീതി അതാണ് മറ്റൊരു പ്രവർത്തനം ഉണ്ട് അത് റീഡു ആണ് ഇത് അതിന്റെ പ്രതിഫലനം മാത്രമാണ് ട്രാൻസാക്ഷൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു പക്ഷേ അതിന് കഴിഞ്ഞില്ല ഡ്യൂറബിലിറ്റി മുതലായവയ്ക്ക് ഈ മൂല്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇത് ശരിയായ ഫോർവേഡ് ക്രമത്തിൽ വായിക്കുന്നു ഇതാണ് ബാക്ക്വേർഡ് ഓർഡർ ഇതാണ് ഫോർവേഡ് ഓർഡർ ആ കാര്യങ്ങൾ പുതിയ മൂല്യങ്ങളിലേക്ക് സജ്ജമാക്കിയിരിക്കുന്നു പഴയപടിയാക്കുന്നതിൽ ലോഗ് ഒരു ബാക്ക്വേർഡ് ക്രമത്തിൽ വായിക്കുകയും എഴുതുന്ന മൂല്യങ്ങൾ അവരുടെ പഴയതിലേക്ക് പോകുകയും ചെയ്യുന്നു കൂടാതെ റീഡുയിൽ അത് ഫോർവേഡ് ഓർഡറിൽ വായിക്കുകയും പുതിയ എഴുത്തുകൾ പുതിയ മൂല്യത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ട്രാൻസാക്ഷൻ ഒരു പ്രശ്നത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ലോഗുകൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ അതിന്റെ കമ്മിറ്റ് പോയിൻറിലെത്തുമെന്ന് റയപ്പെടുന്നു ഇപ്പോൾ ഇത് കമ്മിറ്റല്ല ഇതാണ് കമ്മിറ്റ് കമ്മിറ്റ് പോയിന്റിന്റെ നിർവചനം എല്ലാ പ്രവർത്തനങ്ങളും ശരിയായി ചെയ്തു അവ ലോഗുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് കാര്യങ്ങളും സംഭവിക്കണം എല്ലാ ട്രാൻസാക്ഷനുകളും എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായി നടപ്പിലാക്കുകയും കൂടാതെ അവയെല്ലാം ലോഗിൽ രേഖപ്പെടുത്തുകയും ചെയ്തു ലോഗിലെ റെക്കോർഡിംഗ് നടന്നിട്ടില്ലെങ്കിൽ അത് കമ്മിറ്റ് പോയിൻറിൽ എത്തുന്നില്ല ഇവയെല്ലാം ലോഗിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ട്രാൻസാക്ഷൻ കമ്മിറ്റ് പോയിൻറിൽ എത്തുന്നില്ല ട്രാൻസാക്ഷൻ കമ്മിറ്റ് പോയിൻറിൽ എത്തിക്കഴിഞ്ഞാൽ അതിനു ശേഷം അത് കമ്മിറ്റഡാണെന്ന് പറയപ്പെടുന്നു അതായത് ഇത് ലോഗിൽ എഴുതി എല്ലാം വിജയകരമായി പൂർത്തിയാക്കിയാൽ ട്രാൻസാക്ഷൻ നടത്തിയതായി പറയപ്പെടുന്നു അതിനർത്ഥം ആ ഇടപാടിന് ഇപ്പോൾ അത് പറയാൻ കഴിയില്ല അൺണ്ടു ചെയ്യുമെന്ന് ഇത് വീണ്ടും ചെയ്യാനും ട്രാൻസാക്ഷന്റെ ഫലങ്ങൾ ഡാറ്റാബേസിൽ ശാശ്വതമാണെന്ന് ഉറപ്പുവരുത്താനും മാത്രമേ കഴിയൂ അതാണ് കമ്മിറ്റ് പോയിൻറ് അത് ചെയ്തുകഴിഞ്ഞാൽ കമ്മിറ്റ് ടി എൻട്രി ലോഗിൽ ചെയ്തു മറുവശത്ത് ഒരു അബോർട്ട് ടി ഉണ്ടെങ്കിൽ അൺണ്ടു പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് പോയിന്റിൽ എത്തിയാൽ ലോഗുകൾ ഡിസ്കിൽ എഴുതണം ലോഗുകൾ ഡിസ്കിൽ നിലനിൽക്കണം ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷനുകളും ഡിസ്കിൽ സ്ഥിരമായിരിക്കണം ഇവിടെ കാര്യം ട്രാൻസാക്ഷൻ എങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് അതിനാൽ മറ്റ് ഡാറ്റാബേസ് ഈ ഇടപാട് നടത്തുന്നു ഇത് ഡിസ്കിൽ നിന്ന് പ്രധാന മെമ്മറിയിലേക്ക് ആവശ്യമായ ഡാറ്റ ഇനം കൊണ്ടുവന്ന് പ്രധാന മെമ്മറിയിലെ മൂല്യം മാറ്റുന്നു അത് മാത്രമേ അതിന് കഴിയൂ കമ്മിറ്റ് പോയിന്റിൽ എത്താൻ പറയുമ്പോൾ ഡിസ്കിൽ സംഭവിക്കുമെന്ന് കരുതുന്ന ഈ എഴുത്തുകൾ എല്ലാം ഡിസ്കിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ആവശ്യമെങ്കിൽ ഒരു ഡിസ്ക് ഫ്ലഷ് പ്രവർത്തനം ഉണ്ട് അതായത് ഡിസ്ക് ബഫറിലുള്ള എല്ലാ കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഡിസ്കിലേക്ക് പോയി യഥാർത്ഥത്തിൽ ഡിസ്കിൽ ഒരു പുതിയ കോപ്പി അടങ്ങിയിരിക്കുന്നു അതിനെ ഫോഴ്സ് റൈറ്റിംഗ് എന്ന് വിളിക്കുന്നു ആവശ്യമെങ്കിൽ കമ്മിറ്റ് പോയിന്റിലെത്താൻ പ്രധാന മെമ്മറിയിൽ മാറ്റുന്നതെല്ലാം ഡിസ്കിൽ നിർബന്ധമായും എഴുതണം ഡിസ്കിൽ ശരിയായ പതിപ്പുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഇത് എന്തായാലും ഇത് റീഡു പ്രവർത്തനങ്ങൾ വിജയകരമായി നടത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു ട്രാൻസാക്ഷൻ വീണ്ടെടുക്കുന്നതിനുള്ള ഒരു പോയിന്റാണിത് മറ്റൊരു കാര്യമുണ്ട് അതിനെ ട്രാൻസാക്ഷനുകളുടെ ഒരു കൺകറൻസി പ്രശ്നം എന്ന് വിളിക്കുന്നു കൺകറൻസി എന്നാൽ ഒന്നിലധികം ട്രാൻസാക്ഷനുകൾ ഡാറ്റാബേസിൽ നടപ്പിലാക്കുകയും അവ ഒരേ ഡാറ്റ ഇനം ആക്സസ് ചെയ്യുകയുമാണ് അല്ലാത്തപക്ഷം ഒരു പ്രശ്നവുമില്ല എന്തുകൊണ്ടാണ് ഒരേസമയം ഉപയോഗപ്രദമാകുന്നത് അവ സമയം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ഇത് കൂടുതൽ കാര്യക്ഷമമാണ് ഇത് പ്രോസസറിന്റെയും ഡിസ്കിന്റെയും സിപിയുവിന്റെയും ഉപയോഗം വർദ്ധിപ്പിക്കുന്നു ശരാശരി പ്രതികരണ സമയം എല്ലാ ഇടപാടുകളുടെയും ശരാശരി പൂർത്തീകരണ സമയം കുറയുന്നു പക്ഷേ ഒരാൾ ഡാറ്റ ഇനം വായിക്കാൻ ശ്രമിക്കുന്നു മറ്റേ ട്രാൻസാക്ഷൻ എഴുതാൻ ശ്രമിക്കുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇതിനെ കൺകറൻസി എന്ന് വിളിക്കുന്നു നമുക്ക് റിക്കവറി സംവിധാനങ്ങൾ ഉള്ളതുപോലെ ഇത് കൃത്യത ഉറപ്പാക്കേണ്ട കൺകറൻസി കൺട്രോൾ സ്കീമുകളാണ് ശരിയായ അർത്ഥം ഒരാൾ അത് വായിക്കേണ്ട ഒരു മൂല്യം വായിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ മൂല്യത്തെ വായിക്കുന്നുവെന്ന് കൺകറൻസി കൺട്രോൾ സ്കീമുകൾ ഉറപ്പാക്കുന്നു അതിനാൽ ഇതിനെ ഒരു കൺകറൻസി കൺട്രോൾ സ്കീം എന്ന് വിളിക്കുന്നു ഇതിന്റെ പ്രധാന പ്രവർത്തനം കൃത്യതയാണ് അത് രണ്ട് ട്രാൻസാക്ഷനുകളുടെ കൃത്യത ഉറപ്പാക്കണം അത് ചെയ്യുന്നതിന് സീരിയലൈസബിലിറ്റി എന്ന ആശയം നമ്മൾ നിർവ്വചിക്കുന്നു ഒരേസമയം ട്രാൻസാക്ഷൻ ശരിയാണോ അല്ലയോ എന്ന് പഠിക്കാനുള്ള ഔപചാരിക മാർഗമാണ് സീരിയലിസബിലിറ്റി ഇത് ചെയ്യാനുള്ള യഥാർത്ഥ മാർഗമാണ് സീരിയലിസബിലിറ്റി ട്രാൻസാക്ഷന്റെ ആമുഖം അവസാനിക്കുന്നു ട്രാൻസാക്ഷനുകൾ എന്തൊക്കെയാണെന്നും കുറച്ച് ലോഗുകൾ തുടങ്ങിയവ കണ്ടു അടുത്തതായി നമ്മൾ കൂടുതൽ വിശദമായി റിക്കവറി മാനേജുമെന്റ് സംവിധാനങ്ങൾ പരിശോധിക്കും